ഈ കോഴ്സിൽ നമ്മൾ റക്റ്റിഫയർ ഫിൽട്ടർ സർക്യൂട്ട് പഠിച്ചു നമ്മൾ സിമുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് നമ്മൾക്കറിയാം നമ്മൾ തരംഗ രൂപങ്ങൾ നോക്കി ബക്ക് കൺവെർട്ടർ ബൂസ്റ്റ് കൺവെർട്ടർ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ പോലെയുള്ള നോൺ ഐസൊലേറ്റഡ് കൺവെർട്ടറുകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലൂടെ ഞങ്ങൾ അത് ക്രമീകരിച്ചു ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധത്തിലൂടെ തരംഗ രൂപങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു അവ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും സിമുലേറ്റ് ചെയ്യാമെന്നും ഞങ്ങൾ പരിശോധിച്ചു ഇതിനെ തുടർന്ന് ഫോർവേഡ് കൺവെർട്ടർ ഫ്ലൈ ബക്ക് കൺവെർട്ടർ ഡിറൈവ്ഡ് കൺവെർട്ടറുകൾ പോലുള്ള ഐസൊലേറ്റഡ് കൺവെർട്ടറുകളെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു ബക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞവ ഫോർവേഡ് പുഷ് പുൾ ഹാഫ് ബ്രിഡ്ജ് ഫുൾ ബ്രിഡ്ജും ബക്ക് ബൂസ്റ്റ് ഡിറൈവ്ഡ് കൺവെർട്ടറും അത് ഫ്ലൈ ബക്ക് കൺവെർട്ടറാണ് തുടർന്ന് മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടേഴ്സിനെക്കുറിച്ചു ചർച്ച ചെയ്യുകയും ആ പ്രശ്നം എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്നും കണ്ടു മൾട്ടി ഔട്ട്പുട്ട് കൺട്രോൾ അല്ലെങ്കിൽ മൾട്ടി ഔട്ട്പുട്ട് കൺവെർട്ടറിന്റെ എല്ലാ ഔട്ട്പുട്ടുകളും നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചു DC DC കൺവെർട്ടറിന്റെ സിംഗിൾ ഔട്ട്പുട്ടിനായി PI കൺട്രോളർ ചെയ്യാൻ ശ്രമിക്കുന്നതും പരിശോധിച്ചു കൂടാതെ ക്ലോസ് ലൂപ്പിലുള്ള ഞങ്ങളുടെ കൺവെർട്ടറിന്റെ സിമുലേഷൻ ഫലങ്ങൾ നോക്കാനും ഞങ്ങൾ ശ്രമിച്ചു യഥാർത്ഥത്തിൽ രണ്ട് ടോപ്പോളജികൾ കണ്ടു ഒന്ന് ഫീഡ് ഫോർവേഡ് ഒന്ന് ഫീഡ് ഫോർവേഡ് ഇല്ലാതെയും ഈ നിയന്ത്രണ ടോപ്പോളജികളുടെ പിന്നിലെ സിദ്ധാന്തം കണ്ടു അതിനാൽ DC DC കൺവെർട്ടറിലേക്കും കൺട്രോളറുകളിലേക്കും നിങ്ങൾ ന്യായമായും സംവേദനക്ഷമതയുള്ളവരായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ ഊഹിക്കുന്നു സിമുലേഷൻ ഒരു മികച്ച ഉപകരണമാണ് ഇത് പഠനത്തിനുള്ള മികച്ച ഉപകരണമാണ് ഈ പ്രത്യേക കോഴ്സിൽ ഓപ്പൺ സോഴ്സ് ടൂളുകൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ചിന്തിച്ചു കാരണം ഇത് നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒന്നാണ് മാത്രമല്ല ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ പലർക്കും വിലകൂടിയ സോഫ്റ്റ്വെയറിനായി പണം നൽകാനുള്ള മാർഗമില്ലായിരിക്കാം അതിനാൽ അവർക്ക് ചില ബദലുകൾ ഉണ്ടായിരിക്കണം അതിനാൽ ഓപ്പൺ സോഴ്സ് ടൂളുകൾ ഉപയോഗിച്ച് എല്ലാം ചെയ്യുന്ന ഈ വിഷയം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു തീർച്ചയായും വിൻഡോസിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ധാരാളം ടൂളുകൾ ഉണ്ട് മാറ്റ്ലാബ് സ്പൈസ് കാസ്റ്റർ മറ്റ് തത്തുല്യ സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം ഈ സിമുലേഷനും തുടർന്ന് ഞങ്ങൾ ഈ കോഴ്സിൽ ചർച്ച ചെയ്തതുമായ ഡിസൈൻ വർക്കുകൾക്കായി തീർച്ചയായും ഉപയോഗിക്കാനാകും എന്നാൽ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഊന്നൽ ഓപ്പൺ സോഴ്സ് ടൂളുകൾ സിമുലേഷനുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ഈ ഓപ്പൺ സോഴ്സ് ടൂളുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വാസ്തവത്തിൽ സർക്യൂട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം ഉൾക്കാഴ്ച നൽകുന്നു ഇത് ഒരു നല്ല പഠന പ്ലാറ്റ്ഫോമാണ് എന്നിരുന്നാലും ടേബിളിലെ യഥാർത്ഥ ഹാർഡ്വെയർ നിർവ്വഹണത്തിന് പകരം വയ്ക്കാൻ യാതൊന്നിനും കഴിയില്ലെന്ന് നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം അത് സർക്യൂട്ടിലേക്ക് നിങ്ങൾക്ക് പരമാവധി ഉൾക്കാഴ്ച നൽകും അതിനാൽ ഒരു ലാബ് ടേബിളിൽ നടപ്പിലാക്കുന്നതിലേക്ക് നിങ്ങൾ കൂടുതൽ പോകണമെന്ന് ഞാൻ ക്രമേണ ശുപാർശ ചെയ്യുകയും നിർദ്ദേശിക്കുകയും ചെയ്യും ഒരു സിമുലേഷന് പോലും കണക്കിലെടുക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് കൂടാതെ നിങ്ങൾ നൽകുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ക്ലിനിക്കലും ഡോക്ടറും ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറയും ഉദാഹരണത്തിന് ഹാർഡ്വെയറിലെ EMI പ്രശ്നങ്ങൾ യഥാർത്ഥ ഹാർഡ്വെയറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ലേഔട്ട് റൂട്ടിംഗ് പോലുള്ള ചെറിയ കാര്യങ്ങൾ ഒരു ലൂപ്പിൽ ഒരു ചെറിയ സർക്യൂട്ട് ഉണ്ടാകും തുടർന്ന് ആ ലൂപ്പിലൂടെ ഒരു കറന്റ് ഒഴുകും ആ ലൂപ്പിലൂടെ കറന്റ് ഒഴുകുന്നതിനാൽ ഒരു വൈദ്യുതകാന്തിക വികിരണം ഉണ്ടാകും കാരണം ലൂപ്പ് ഒരു ആന്റിന പോലെ പ്രവർത്തിക്കും തുടർന്ന് ഇത് ഒരു അയൽ സർക്യൂട്ടിലേക്ക് കപ്പിൾ ചെയ്യാം ഈ പ്രശ്നം സിമുലേഷനിൽ കാണിക്കുന്നതിനോ ഒരു സിമുലേഷനിൽ പ്രതിഫലിക്കുന്നതിനോ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മോഡലുകൾ അവിടെ ഇല്ലായിരിക്കാം കൂടാതെ ഇത് ലേഔട്ട് റൂട്ടിംഗ് പ്രശ്നങ്ങൾ പോലുള്ള മറ്റ് പാരാമീറ്ററുകളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയും ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുകയും വേണം നിങ്ങൾ സിമുലേഷൻ നടത്തുമ്പോൾ സിമുലേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ ഏകീകരിക്കും എന്ന അർത്ഥത്തിൽ ഒരു നുള്ള് ഉപ്പ് ഉപയോഗിച്ച് സിമുലേഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡിസൈൻ ശരിയാണെന്ന് അത് പറയും ഇതിന് വളരെയധികം കറന്റ് കൈകാര്യം ചെയ്യാൻ കഴിയും ഈ പ്രത്യേക ഉപകരണത്തിന് വളരെയധികം വോൾട്ടേജ് കൈകാര്യം ചെയ്യാൻ കഴിയും ഇത്രയും വോൾട്ടേജ് താങ്ങാൻ കഴിയും ഇതാണ് നിലവിലുള്ള പാത ഒരു പ്രത്യേക സർക്യൂട്ടിനായി കറന്റ് എടുക്കുന്ന പാതയാണിത് പ്രത്യേക സമയം തൽക്ഷണം ഈ ആശയങ്ങളെല്ലാം ഏകീകരിക്കാനും മനസ്സിലാക്കാനും കഴിയും കൂടാതെ ഇതിൽ മികച്ച ഉൾക്കാഴ്ചകൾ ലഭിക്കും എന്നാൽ ഹാർഡ്വെയറിൽ നടപ്പിലാക്കുന്ന സമയത്ത് നിങ്ങൾ സങ്കൽപ്പിക്കാത്ത തരത്തിൽ ഞാൻ EMI EMC പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മറ്റ് നിരവധി പ്രശ്നങ്ങളും അസ്വസ്ഥതകളും അനിശ്ചിതത്വങ്ങളും ലഭിക്കും നമുക്ക് വയറിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാകാം കംപോണന്റ് ലേഔട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം കംപോണന്റ് തന്നെ തിരഞ്ഞെടുക്കാം ഗേറ്റിന്റെ കൈകാര്യം ചെയ്യൽ ഉണ്ടാകാം സംരക്ഷണ പ്രശ്നങ്ങൾ ഉണ്ടാകും വോൾട്ടേജ് സംരക്ഷണ പ്രശ്നങ്ങൾ കറന്റ് പരിരക്ഷണ പ്രശ്നങ്ങൾ ഇവയെല്ലാം സംയോജിപ്പിച്ച പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാം

അതിനാൽ അത്തരം ചെറിയ ചെറിയ നിരവധി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും തുടർന്ന് അവ ഒരു പ്രധാന പ്രശ്നമായി മാറുകയും കൂടുതൽ നിങ്ങൾ ലാബ് ടേബിളിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഭവം ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യും ഈ ഡിസൈൻ എല്ലാം വളരെ ചിട്ടയായതാണെന്നും അതിൽ എഞ്ചിനീയറിംഗ് കൃത്യതയുണ്ടെന്നും ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു കലാകാരനെപ്പോലെയാണ് നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ കലയുടെ ചില ഘടകങ്ങൾ അതിൽ വരുന്നു അതിനാൽ ഇത് എഞ്ചിനീയറിംഗും സയൻസും മാത്രമല്ല നിങ്ങൾ സർക്യൂട്ട് നിർമ്മിക്കുന്ന PCB ലേഔട്ടുകൾ നടപ്പിലാക്കുകയും അതിൽ നിന്ന് ഫലങ്ങൾ നേടുകയും ചെയ്യുമ്പോൾ അത് കല കൂടിയാണ് ഈ കോഴ്സിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഐസൊലേറ്റഡ് നോൺ ഐസൊലേറ്റഡ് ഡിസി ഡിസി കൺവെർട്ടറുകളോട് നിങ്ങൾക്ക് സംവേദനക്ഷമതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഓപ്പൺ സോഴ്സ് ടൂളുകൾ ഉപയോഗിച്ച് സർക്യൂട്ട് എങ്ങനെ സിമുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം ഈ പ്രത്യേക കോഴ്സിന് ഉൾക്കാഴ്ച നേടുന്നതിനും സർക്യൂട്ട് ഇൻപുട്ട് ചെയ്യുന്നതിനുമുള്ള രീതി ഔട്ട്പുട്ട് ബന്ധം ഇത് ഉപയോഗിച്ച് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യുന്ന രീതി എന്നിവയ്ക്ക് അടിസ്ഥാനമുണ്ട് നിങ്ങൾ കൂടുതൽ സാഹിത്യങ്ങൾ ശരിയായി നോക്കുകയും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം സാഹിത്യത്തിലും പേപ്പറുകളിലും ലഭ്യമായ മറ്റ് ടോപ്പോളജികളിലേക്കും കൂടുതൽ വ്യത്യസ്തമായ ടോപ്പോളജികളിലേക്കും കളിക്കുക തുടർന്ന് തുറന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഒരു പ്രത്യേക തകർന്നതോ കേടായതോ ആയ SMPS തുറക്കുക അവ തുറന്ന് അകത്ത് എന്താണ് നടക്കുന്നതെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക അതുവഴി DC DC കൺവെർട്ടറുകളെ കുറിച്ച് അന്വേഷിക്കാനും കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടാനും നിങ്ങൾക്ക് ശ്രമിക്കാം ഞാൻ നിങ്ങളെ വളരെ ഹ്രസ്വമായി സ്പർശിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വശം കാന്തികതയുടെ ഭാഗമാണ് ഇൻഡക്ടർ മാഗ്നറ്റിക് ട്രാൻസ്ഫോർമർ മാഗ്നെറ്റിക് എന്നിവയിൽ കാന്തികത വളരെ നിർണായകമാണ് കൂടാതെ ഈ ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് ഡിസൈനുകൾ DC DC കൺവെർട്ടറുകളുടെ ശരിയായ പ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ് കൂടാതെ ട്രാൻസ്ഫോർമറുകളും ഇൻഡക്ടറുകളും രൂപകൽപ്പന ചെയ്യുന്ന ഈ കലയിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടേണ്ടതുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോർമറുകൾ കൂടുതൽ കൂടുതൽ വിൻഡ് ചെയ്യുന്നു നിങ്ങൾ വ്യത്യസ്ത തരം കോറുകൾ എടുത്ത് അവയെ ഒരുമിച്ച് ചേർക്കുക തുടർന്ന് അത് നിങ്ങളുടെ കൈകൊണ്ട് ചുറ്റി വയ്ക്കുക തുടർന്ന് വ്യക്തമായ വിടവുകൾ ചേർക്കുക തുടർന്ന് ഇൻഡക്ടൻസ് മൂല്യങ്ങൾ പരിശോധിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും അത് കാന്തികത്തെ നിർമ്മിക്കും കാരണം മിക്ക പവർ ഇലക്ട്രോണിക്സുകളിലും മിക്ക DC DC കൺവെർട്ടറുകളും ഉണ്ട് സെൻട്രൽ ഫിഗർ സെൻട്രൽ കംപോണന്റ് എന്നിവ പവർ അർദ്ധചാലക ഉപകരണം മാത്രമല്ല എന്നാൽ കൂടുതൽ വാസ്തവത്തിൽ ട്രാൻസ്ഫോർമറുകളും ഇൻഡക്റ്ററും ആയ കാന്തിക ഘടകങ്ങൾ ആണ് അതിനാൽ നിങ്ങൾ കലയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും ട്രാൻസ്ഫോർമറുകളും ഈ ഇൻഡക്ടറുകളും നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ ശ്രമിക്കുകയും വേണം അതിനാൽ ഞാൻ ഈ വിഷയവും ഈ കോഴ്സും അവസാനിപ്പിക്കുകയും വീണ്ടും മറ്റൊരു കോഴ്സിൽ ഭാവിയിൽ നിങ്ങളെ കണ്ടുമുട്ടുകയും ചെയ്യാം നന്ദി